ബയോ റിയാക്ടേഴ്സിനെക്കുറിച്ചുള്ള ഈ രണ്ടാമത്തെ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഇത് ബയോ റിയാക്ടറുകളുടെ ഒരു mooc ആണ് മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾ ആമുഖം മൊഡ്യൂൾ ഒന്ന് നോക്കി കോഴ്സിന്റെ സമ്പ്രദായങ്ങളെക്കുറിച്ച് പരാമർശിച്ചതിന് ശേഷം നമ്മൾ ചില ദൈനംദിന ഉദാഹരണങ്ങൾ പരിശോധിച്ചു കാൻസർ പോലുള്ളവ ദൈനംദിന ആശങ്കകൾ കാൻസർ ക്യാൻസർ എന്താണെന്നും കാൻസറിനെ എങ്ങനെ അലോപ്പതിയായി ചികിത്സിക്കുന്നുവെന്നും നമ്മൾ പരിശോധിച്ചു ക്യാൻസർ കോശങ്ങളെ കൊല്ലുന്ന മരുന്നുകളെ ടാർഗെറ്റുചെയ്യാൻ മോണോക്ലോണൽ ആന്റിബോഡികൾ ഉപയോഗിക്കുന്നുവെന്ന് നമ്മൾ പറഞ്ഞു വലിയ അളവിൽ ആവശ്യമുള്ളപ്പോൾ ഈ മോണോക്ലോണൽ ആന്റിബോഡികൾ ബയോ റിയാക്ടറുകൾ അല്ലെങ്കിൽ ബയോപ്രൊസസ്സുകൾ വഴി ഉൽപാദിപ്പിക്കപ്പെടുന്നു അങ്ങനെയാണ് നമ്മൾ ആരംഭിച്ചത് പിന്നെ നമ്മൾ മറ്റ് ഉദാഹരണങ്ങൾ നോക്കി ഇതര ദ്രാവക ഇന്ധനങ്ങൾ പോലുള്ളവ ബയോ എത്തനോൾ ബയോ ഡീസൽ അവ ബയോപ്രോസസുകളിലൂടെയും ഉൽപാദിപ്പിക്കപ്പെടുന്നു എത്തനോൾ നിർമ്മാണം അതേക്കുറിച്ചു ഉള്ള വിവരങ്ങൾ അറിയാൻ ഞാൻ ഒരു ലിങ്ക് തന്നിരുന്നു ധാന്യം മുതൽ ആൽഗകൾ ഇന്ധനങ്ങൾ മുതലായവയെക്കുറിച്ചുള്ളവ നമ്മൾ അവ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവ രസകരമായ വീഡിയോകളാണ് പിന്നെ നമ്മൾ ഇൻസുലിൻ നോക്കി അത് ഒരു ക്ലാസിക് മരുന്നാണ് വാസ്തവത്തിൽ വലിയ തോതിൽ ഉൽപാദിപ്പിക്കുന്ന ആദ്യത്തേതിൽ ഒന്ന് ബയോ പ്രോസസ്സുകൾ ഉപയോഗിച്ച് വലിയ തോതിൽ ഉൽപാദിപ്പിക്കുന്ന ഒന്ന് ഒടുവിൽ നമ്മൾ തൈര് നിർമ്മാണം നോക്കി തൈര് നിർമ്മാണവും ഒരു ബയോപ്രോസസ് ആണെന്ന് പറഞ്ഞു തൈര് നിർമ്മിച്ച പാത്രം ഒരു ബയോ റിയാക്റ്റർ മാത്രമാണ് തീർച്ചയായും ഇത് ഒരു ബയോ റിയാക്ടറിന്റെ ലളിതമായ രൂപമാണ് ഒരു ബയോ റിയാക്ടർ മറ്റൊന്നുമല്ല ഒരു പാത്രം ഉയർന്ന ഉപകരണവും നിയന്ത്രിതവുമായ ഒരു പാത്രം അതിൽ ബയോ റിയാക്ഷൻ നടക്കുകയും ബയോ ഉൽപന്നങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു തുടർന്ന് ബയോപ്രോസസിന്റെ അവലോകനം നമ്മൾ പരിശോധിച്ചു ഇതിന് രണ്ട് പ്രധാന വശങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ബയോ റിയാക്ടർ വശം അല്ലെങ്കിൽ അപ്സ്ട്രീം വശം ഡൌൺസ്സ്ട്രീം പ്രോസസ്സിംഗ് വശങ്ങൾ അസംസ്കൃതവസ്തുക്കൾ ബയോ റിയാക്ടറിലേക്ക് പോകുന്നു അതിൽ സൂക്ഷ്മജീവികളും പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് അത് വളരുന്നതിനും താൽപ്പര്യമുള്ള ഉൽപന്നം ഉൽപാദിപ്പിക്കുന്നതിനും വേണ്ടിയാണ് അല്ലെങ്കിൽ ഇത് ഒരു എൻസൈമാറ്റിക് പരിവർത്തനം ചെയ്യുന്ന എൻസൈം ആകാം ബയോ റിയാക്ടറിൽ നിന്ന് വിളവെടുക്കുന്നതെന്താണ് ബയോ റിയാക്ടറിൽ നിന്ന് വിളവെടുക്കുന്ന ഈ ദ്രാവക പ്രവാഹത്തിൽ സൂക്ഷ്മജീവികളോടൊപ്പം നമുക്ക് താല്പര്യം ഉള്ള ഉൽപന്നവും പിന്നെ മറ്റ് വസ്തുക്കളും അടങ്ങിയിരിക്കുന്നു ഉൽപ്പന്നത്തിൽ മാത്രം നമുക്ക് താൽപ്പര്യമുള്ളതിനാൽ മറ്റ് മെറ്റീരിയലിൽ നിന്ന് നമ്മൾ അത് നീക്കംചെയ്യേണ്ടതുണ്ട് അന്തിമ ശുദ്ധീകരിച്ച ഉൽപ്പന്നം നേടുന്നതിന് ഡൌൺസ്ട്രീം പ്രോസസ്സിംഗ് ഘട്ടങ്ങളിലൂടെ ആണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ സാധാരണ ബയോ റിയാക്റ്റർ തരങ്ങൾ നോക്കി സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടർ സാധാരണ തരങ്ങളിൽ ഒന്നാണെന്ന് നമ്മൾ പറഞ്ഞു ഇത് ഒരു സ്റ്റിർഡ് ടാങ്കല്ലാതെ മറ്റൊന്നുമല്ല പിന്നെ ഒരു എയർ ലിഫ്റ്റ് ബയോ റിയാക്ടർ ഒരു പായ്ക്ക്ഡ് ബെഡ് ബയോ റിയാക്ടർ ഒരു ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ബയോ റിയാക്ടർ ഇത് മറ്റൊന്നും ആയി ചുറ്റിക്കറങ്ങുന്നില്ല ഒരു പാക്ക്ഡ് ബെഡ് മാത്രം അവിടെ ചില ഗുണങ്ങളുണ്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് ദ്രാവകവൽക്കരിച്ച ബെഡ് ബയോറിയാക്ടറിനെക്കുറിച്ചുള്ള ചില വിശദാംശങ്ങളിലേക്ക് നമ്മളെ നയിച്ചു എന്നിട്ട് സോളിഡ് സ്റ്റേറ്റ് ബയോ റിയാക്ടറുകൾ ഏതെങ്കിലും ജൈവവസ്തുക്കളുടെ ഉൽപാദനത്തിനായി കർശനമായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ കർശനമായ റെഗുലേറ്ററി നടപടിക്രമങ്ങൾ നിറവേറ്റുന്നതിന് സഹായകമായ ഒറ്റ ഉപയോഗ ബയോ റിയാക്ടറുകളെ പറ്റിയും നോക്കി മൈക്രോആൽഗകളോടും മറ്റ് ഫോട്ടോസിന്തറ്റിക് ജീവികളോടും സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ഫോട്ടോബയോറിയാക്ടർ മറ്റ് പല തരത്തിലുള്ള റിയാക്ടറുകളും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഇവ സാധാരണമാണ് മറ്റ് തരങ്ങളും ഉണ്ടാകാം ഓരോ ബയോ റിയാക്ടറും 3 അടിസ്ഥാന മോഡുകളിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ബയോ റിയാക്റ്റർ അല്ലെങ്കിൽ നിരവധി ബയോ റിയാക്ടറുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഒന്നുകിൽ ഒരു ബാച്ച് പ്രവർത്തനം അവിടെ നമ്മൾ എല്ലാം ഉപേക്ഷിക്കുന്നു പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കുക എല്ലാം ഉപേക്ഷിച്ച് കൂടുതൽ പ്രോസസ്സിംഗ് തുടരുക അല്ലെങ്കിൽ തുടർച്ചയായുള്ള ഇൻപുട്ട് തുടർച്ചയായ ഔട്ട്പുട്ട് ഉള്ള ഒരു തുടർച്ചയായ പ്രവർത്തനം വളർച്ച ഉൽപന്ന രൂപീകരണം പോഷകങ്ങളുടെ ഒഴുക്ക് എല്ലാം ഒരേസമയം സംഭവിക്കുന്നു പിന്നെ ഒരു ഫെഡ് ബാച്ച് പ്രവർത്തനം അതു ബാച്ചിനും തുടർച്ചയായ പ്രവർത്തനത്തിനും ഇടയിൽ ആണ് അവിടെ ഇടവിട്ടുള്ള ഇൻപുട്ടും ഇടവിട്ടുള്ള ഔട്പുട്ടും വരും അതും ഒരേ സമയം വരാം നമ്മൾ പറഞ്ഞ ചില റിയാക്ടറുകൾ 3 പ്രവർത്തന രീതികളിലും അവ പ്രവർത്തിപ്പിക്കാനുള്ള എല്ലാ 3 മോഡുകളിലേക്കും നന്നായി യോജിക്കുന്നു അവയിൽ ചിലത് പ്രവർത്തിക്കുന്നില്ല അവസാനത്തെ പ്രഭാഷണത്തിൽ നമ്മൾ നിർത്തിയത് ഇവിടെ ആണെന്ന് തോന്നണു ഒരു ബയോപ്രോസസ് ഉൾപ്പെടുമ്പോഴെല്ലാം നമുക്ക് ഒരു ക്ലീൻ സ്ലേറ്റ് ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞു നമുക്ക് താൽപ്പര്യമുള്ള ജീവികൾ മാത്രമേ ബയോ റിയാക്ടറിൽ വളരുകയുള്ളൂ അതിനാൽ നമ്മൾ ആരംഭിക്കുമ്പോൾ ബയോ റിയാക്ടർ ഒരു ക്ലീൻ സ്ലേറ്റായിരിക്കണം ശുദ്ധമായ സ്ലേറ്റ് നേടുന്നതിനുള്ള മാർഗ്ഗങ്ങൾ ഒന്നുകിൽ ഉയർന്ന താപനിലയിലൂടെയോ രാസവസ്തുക്കളിലൂടെയോ നീരാവിയിലൂടെയോ യുവി ഗാമ പോലുള്ള വികിരണങ്ങളിലൂടെയോ ആണ് ഇത് ബയോ റിയാക്ടറിൽ ഉള്ള എല്ലാ ജീവികളെയും കൊല്ലുകയും പിന്നീട് നമുക്ക് ശുദ്ധമായ സ്ലേറ്റ് നൽകുകയും ചെയ്യുന്നു തുടർന്ന് നമുക്ക് താൽപ്പര്യമുള്ള ജീവികളെ നമ്മൾ അതിൽ ഇറക്കുന്നു അത് വളരുന്നു വർദ്ധിക്കുന്നു നമ്മുടെ താൽപ്പര്യത്തിന് അനുസരിച്ച ഉൽപ്പന്നം ഉൽപാദിപ്പിക്കുന്നു അതിനാൽ ഈ പ്രഭാഷണത്തിൽ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാം ഈ ഘട്ടത്തിൽ ഉയർന്ന താപനില ഉപയോഗിച്ച് ശുദ്ധമായ സ്ലേറ്റ് അല്ലെങ്കിൽ അണുനശീകരണം നേടുന്നതിനെക്കുറിച്ചുള്ള ചില വിശദാംശങ്ങളിൽ നമുക്ക് ഉയർന്ന താപനില നോക്കും ഇത് പ്രത്യേകിച്ചും താപ അണുനശീകരണം ആണ് ഉയർന്ന താപനില ഉപയോഗിക്കുന്ന ഒന്ന് നമ്മൾ ഇത് കോശങ്ങളുടെ സാന്ദ്രതക്കും സമയത്തിനും ആയിട്ട് പ്ലോട്ട് ചെയുന്നു ഇത് ഒരു ലോഗ് സ്കെയിലിൽ ആണ് നമ്മൾ പ്ലോട്ട് ചെയുന്നത് അതായത് 100 10 1 0 1 എന്നിങ്ങനെ ഒരു 50 എന്ന താപനിലയിൽ അതൊരു ഉയർന്ന താപനില ആണ് കുറെ സൂക്ഷ്മജീവികൾ 30 ഡിഗ്രി സി 37 ഡിഗ്രി സി നമ്മൾ 20ഇൽ കൂടുന്നു 27 ക്ഷമിക്കണം 27 അതുപോലെ ഉള്ളവ 50 ഡിഗ്രി സി മിക്ക സൂക്ഷ്മജീവികൾക്കും കൂടിയ താപനില ആണ് ചില തെർമോഫൈൽസ് ഉണ്ട് അത് ഉയർന്ന താപനിലയിൽ വളരുന്നു എന്നാൽ അതേപ്പറ്റി ഇപ്പോൾ നമുക്ക് ചിന്തിക്കണ്ട അത് 50 ഡിഗ്രി സി ആണെൻകിൽ കോശങ്ങളുടെ സമഗ്രത രേഖീയമായി കുറയുന്നു അത് 50ഡിഗ്രി സി ഇൽ 60 ഡിഗ്രി സി അതിന്റെ പ്രതികരണം വീണ്ടും രേഖീയമാണ് പക്ഷേ ഇത് കുത്തനെയുള്ളതാണ് അത് വേഗത്തിൽ നശിപ്പിക്കപ്പെടും അതുപോലെ തന്നെ 70 ഡിഗ്രി സിയിലും പ്രതികരണം രേഖീയമാണ്പക്ഷെ ഇവിടെ കർവിന്റെ സ്ലോപ്പ് കുറച്ചു കൂടി കൂടുതൽ ആണ് അതും 50 ഡിഗ്രി സി യും അതുപോലെ 60 ഡിഗ്രി സിയും ആയി താരതമ്യം ചെയുമ്പോൾ പ്രവർത്തനക്ഷമമായ കോശങ്ങൾ ഉയർന്ന താപനിലയിൽ എത്തുമ്പോൾ ആഗിരണം ചെയ്യപ്പെടുന്ന സാധാരണ പ്രതികരണമാണിത് താപനില അവയുടെ സാധാരണ പ്രവർത്തന താപനിലയേക്കാൾ കൂടുതലാണ് ഒരൊറ്റ കോശങ്ങളുടെ സസ്പെൻഷന് ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ബാധകമാണ് കോശങ്ങൾ വെവ്വേറെ ഒന്നിച്ച് ചേർന്നിട്ടില്ല എന്നിങ്ങനെ പോകുന്നു ഈ ഗ്രാഫ് നമ്മളോട് പറയുന്നത് പ്രായോഗിക കോശ സാന്ദ്രതയുടെ ലോഗരിതം ഇത് ഒരു ലോഗ് സ്കെയിലിലാണെന്ന് അറിയുക അതിനാൽ പ്രവർത്തനക്ഷമമായ കോശങ്ങളുടെ സാന്ദ്രത ശതമാനത്തിന്റെ അല്ലെങ്കിൽ ഒരു ഭിന്നസംഖ്യയുടെ ലോഗരിതം അതിന് താഴെയുള്ള ഭിന്നസംഖ്യയുടെ ശതമാനമാണെന്ന് നമുക്കറിയാം പ്രവർത്തനക്ഷമമായ കോശങ്ങളുടെ സാന്ദ്രതയുടെ ശതമാനം ഉയർന്ന താപനിലയിൽ എത്ര സമയം വയ്ക്കുന്നു എന്നുളത്തിനു നേർ അനുപാതം ആണ് അതിനാൽ ഒരൊറ്റ കോശത്തിന്റെ സസ്പെൻഷനുകൾ ഉയർന്ന താപനിലയിലേക്ക് തുറന്നുകാണിക്കുമ്പോൾ നാം കാണുന്ന സ്വഭാവമാണിത് അതിനാൽ നമ്മൾ ഇത് എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കുന്നതിന് മുമ്പ് ഇത് കുറച്ചുകൂടി നന്നായി നമുക്ക് മനസ്സിലാക്കാം അതിനാൽ ആവശ്യമുള്ള ഏത് സാഹചര്യത്തിലും ഇത് ഉപയോഗിക്കുന്നത് എളുപ്പമാകും ആവശ്യമുള്ള ഏത് സാഹചര്യത്തിലും നമ്മൾ നേരത്തെ കണ്ട ബന്ധം ഉണ്ടാകുന്നത് പ്രായോഗിക കോശങ്ങളുടെ സാന്ദ്രത നിരക്കിൽ ഉള്ള കുറവ് നിലവിലുള്ള കോശങ്ങളുടെ സാന്ദ്രതക് നേരിട്ട് ആനുപാതികമാകുമ്പോഴാണ് rateofdecreaseinconcentration∝xv ഇപ്പോൾ ഞാൻ ഇത് ആവർത്തിക്കട്ടെ പ്രായോഗിക കോശങ്ങളുടെ സാന്ദ്രത കുറയുന്നതിന്റെ നിരക്ക് എപ്പോൾ വേണമെങ്കിലും നിലവിലുള്ള കോശങ്ങളുടെ സാന്ദ്രതയ്ക്ക് ആനുപാതികമാണ് ഉദാഹരണത്തിന് ഇതാണ് നമ്മൾ ഇവിടെ പരാമർശിച്ചത് പക്ഷേ ഗണിതശാസ്ത്രപരമായി എഴുതിയിരിക്കുന്നു പ്രവർത്തനക്ഷമമായ കോശങ്ങളുടെ സാന്ദ്രത കുറയുന്നതിന്റെ നിരക്ക് കോശങ്ങളുടെ സാന്ദ്രതയ്ക്ക് ആനുപാതികമാണ് rateofdecreaseinconcentration∝xv നമ്മൾ raterd എന്ന് വിളിച്ചാൽ സാന്ദ്രതയിലെ താഴ്ന്ന നിരക്കിനെ rd എന്നാകാം ഇത് ആനുപാതികമായതിനാൽ ആനുപാതികതയെ ഈക്വൽ ചിഹ്നത്തിന് തുല്യമായി മാറ്റിസ്ഥാപിക്കാം ഇവിടെ നമുക്ക് x v യെ ഒരു സ്ഥിരാങ്കം കൊണ്ട് ഗുണിക്കേണ്ടതുണ്ട് നമുക്ക് ഇതിനെ സ്ഥിരാങ്കം kd എന്ന് വിളിക്കാം നമുക്ക് മുമ്പത്തെ കോഴ്സുകളിലെ ഇത്തരത്തിലുള്ള ഫസ്റ്റ് ഓർഡർ എക്സ്പ്രഷൻ നമുക്ക് പരിചിതമായിരിക്കാം അതിനാൽ നമ്മൾ ഇവിടെ ഒരു പ്രാതിനിധ്യത്തിന്റെ ആദ്യ ഓർഡർ തരം ഉപയോഗിക്കുന്നു rdkdxv ശ്രദ്ധിക്കുക rd എന്നത് സാന്ദ്രത കുറയുന്നതിന്റെ നിരക്ക് അതായത് യൂണിറ്റ് സമയത്തിന് സാന്ദ്രത കുറയുന്നു ഒരു യൂണിറ്റ് സമയത്തിന് ഒരു യൂണിറ്റ് വോളിയത്തിന്റെ മാസ്സ് അല്ലെങ്കിൽ കോശങ്ങളുടെ എണ്ണം അതാണ് ഇവിടത്തെ യൂണിറ്റ് അതിനാൽ സാന്ദ്രതയാണ് അടിസ്ഥാനം ഇത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇപ്പോൾ ബയോ റിയാക്ടറിനെ സിസ്റ്റമായി എടുക്കുന്ന കോശങ്ങളെക്കുറിച്ച് ഒരു ബാലൻസ് എഴുതാം നമ്മൾ എല്ലാവരും മെറ്റീരിയൽ ബാലൻസുകളെക്കുറിച്ചുള്ള ഒരു കോഴ്സിലൂടെ കടന്നുപോയി അതിനാൽ നമ്മൾ കോശങ്ങളിലെ ഒരു മെറ്റീരിയൽ ബാലൻസ് എഴുതാൻ പോകുന്നു നമ്മൾ ശ്രദ്ധ കേന്ദ്രികരിക്കുന്നിടത്തു ബാലൻസ് എഴുതാൻ നമുക്ക് കഴിയും അതിനെ സിസ്റ്റം എന്ന് വിളിക്കുന്നു ഈ കേന്ദ്രത്തിന്റെ മേഖലയെ സിസ്റ്റം എന്ന് വിളിക്കുന്നു ഈ സാഹചര്യത്തിൽ കോശങ്ങൾ വളരുന്ന ബയോ റിയാക്ടറിലെ ദ്രാവക ഭാഗമായ ബയോ റിയാക്ടർ ചാറു അതാണ് നമ്മൾ സിസ്റ്റമായി എടുക്കാൻ പോകുന്നത് ആ സിസ്റ്റത്തിലെ സെല്ലുകളെക്കുറിച്ച് ഒരു ബാലൻസ് എഴുതാൻ പോകുന്നു ഈ സമവാക്യം നമുക്ക് ഇവിടെ ഓർമ്മിക്കാം ri rorg rcddt സിസ്റ്റത്തിലേക്ക് ഉള്ള കോശങ്ങളുടെ ഇൻപുട്ടിന്റെ നിരക്ക് അതായത് ബയോ റിയാക്ടർ ചാറ് ബയോ റിയാക്ടർ ചാറിൽ നിന്നുള്ള കോശങ്ങളുടെ ഔട്ട്പുട്ട് നിരക്ക് കൂടാതെ ബയോ റിയാക്റ്റർ ചാറിലെ കോശങ്ങളുടെ ഉത്പാദന നിരക്ക് മൈനസ് കോശങ്ങളുടെ ഉപഭോഗ നിരക്ക് ബയോ റിയാക്ടർ ചാറിലെ കോശങ്ങളുടെ ശേഖരണത്തിന്റെ തോതിന് തുല്യമാണ് സ്പീഷിസ് സെല്ലുകൾക്ക് സംഭവിക്കാവുന്നതെല്ലാം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഇതാണ് ഇതെല്ലാം സംഭവിക്കാം അത് ഒന്നുകിൽ സിസ്റ്റത്തിലേക്ക് വരാം സിസ്റ്റത്തിൽ നിന്ന് പുറത്തുപോകാം സിസ്റ്റത്തിൽ ഉൽപാദിപ്പിക്കപ്പെടാം അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഉപഭോഗം ചെയ്യാം ഇവയുടെയെല്ലാം മൊത്തം ഫലം ശേഖരിച്ച നിരക്കിനോ ശേഖരിക്കപ്പെട്ട തുകയ്ക്കോ തുല്യമായിരിക്കണം അത് ഇവിടെ ഒരു നിരക്കായി പ്രകടിപ്പിക്കുന്നു ഇവയെല്ലാം നിരക്കുകളായതിനാൽ ഇതും ഒരു നിരക്കാണ് ഇത് ഒരു മാസ്സ് അടിസ്ഥാനത്തിലാണെന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ഇത് മാസ്സ് സംരക്ഷണ തത്വത്തിൽ നിന്നാണ് വരുന്നത് ഈ തത്വമാണ് ഇത് ചിഹ്നത്തിന് തുല്യമായി എഴുതാൻ നമ്മളെ അനുവദിക്കുന്നത് മാസ്സ് സംരക്ഷിക്കപ്പെടുന്നു മാസ്സ് സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയും നാം തീർച്ചയായും ആണവ പ്രതിപ്രവർത്തനങ്ങൾ പരിഗണിക്കുകയോ പ്രകാശവേഗത്തിൽ സഞ്ചരിക്കുകയോ ചെയ്യുന്നില്ല അത്തരം സാഹചര്യങ്ങളിൽ ഒരു ജീവിവർഗത്തിന്റെ സംരക്ഷണം സംരക്ഷിക്കപ്പെടുന്നു ഒരു പ്രക്രിയയ്ക്ക് മുമ്പുള്ള ജീവിവർഗങ്ങളുടെ മാസ്സ് പ്രക്രിയയ്ക്കുശേഷം ജീവിവർഗങ്ങളുടെ മാസ്സ്നു തുല്യമാണ് ഇത് ഇപ്പോഴും വ്യക്തമല്ലെങ്കിൽ പല വിദ്യാർത്ഥികളും ഇത് മനസിലാക്കാൻ കുറച്ച് സമയമെടുക്കുന്നു അതിനാൽ ഈ സമവാക്യത്തിന്റെ അടിസ്ഥാനം അവലോകനം ചെയ്യാം മെറ്റീരിയൽ ബാലൻസുകളെക്കുറിച്ചുള്ള നമ്മുടെ ആദ്യ കോഴ്സിൽ നമ്മൾ ഇതിൽ ചിലത് ചെയ്തിരിക്കാം അതിനാൽ നമുക്ക് ഇത് ഒരു അവലോകനമായി എടുത്ത് ആവശ്യമുള്ള പരിധിവരെ ഇത് മനസിലാക്കാൻ ശ്രമിക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ബാലൻസുകൾ കൈകാര്യം ചെയ്യാനോ എഴുതാനോ കഴിയും അത് ചെയ്യുന്നതിന് ചെന്നൈയിൽ വേനൽക്കാലത്ത് നമുക്ക് വളരെ പരിചിതമായ ഒരു സാഹചര്യം പരിഗണിക്കാം ഇപ്പോൾ ഇതാണ് വാട്ടർ ടാങ്കറുകളുടെ ഒരു ഉപയോഗം വെള്ളം തീർന്നുപോയാൽ ദൈനംദിന ആവശ്യങ്ങൾക്കായി വെള്ളം ലഭിക്കുന്നതിന് വാട്ടർ ടാങ്കറുകൾ ഉപയോഗിക്കുന്നു വാട്ടർ ടാങ്കറിന്റെ സാധാരണ വലുപ്പം ഏകദേശം 12000 ലിറ്റർ ആകട്ടെ ഇതാണ് ഇവിടെ ഒരു വാട്ടർ ടാങ്കറിന്റെ പ്രാതിനിധ്യം ഇത് ഒരു വാട്ടർ ടാങ്കർ എങ്ങനെയെന്ന് കാണാൻ നമ്മുടെ ഭാവന ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വാട്ടർ ടാങ്കർ സ്ഥിതിചെയ്യുന്ന ലോറിയുടെ പിൻഭാഗമാണിത് വാട്ടർ ടാങ്കറിന്റെ ഉള്ളിൽ വെള്ളം നിറയ്ക്കുന്നത് ഇതാണ് എന്ന് നമുക്ക് പറയാം അതിനാൽ ഇത് സാധാരണയായി 8000 ലിറ്റർ 10000 ലിറ്റർ 12000 ലിറ്റർ അല്ലെങ്കിൽ 16000 ലിറ്റർ ആണ് 12000 ലിറ്റർ ശേഷിയുള്ള ഒരു ടാങ്ക് നമുക്ക് പരിഗണിക്കാം ഇതാണ് സ്ഥിതി ടാങ്കിലെ ജലത്തിന്റെ മാസ്സ് എന്താണ് സാന്ദ്രത അറിയാമെങ്കിൽ ടാങ്കിലെ ജലത്തിന്റെ മാസ്സ് കണ്ടെത്താൻ കഴിയുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ജലത്തിന്റെ സാന്ദ്രത ഒരു സിസിക്ക് 1 ഗ്രാം അല്ലെങ്കിൽ ഒരു മീറ്ററിന് 1000 കിലോഗ്രാം ഒരു ലിറ്ററിന് 1 കിലോഗ്രാം അതിനാൽ 12000 ലിറ്റർ 12000 കിലോഗ്രാം മാസ്സ് ആയിരിക്കും ഒരു ടാങ്ക് നിറയ്ക്കാൻ എത്ര സമയമെടുക്കുമെന്നതാണ് ഇപ്പോൾ ചോദ്യം ഈ ടാങ്ക് നിറയ്ക്കാൻ 12000 ലിറ്റർ ടാങ്ക് വേണം അതാണ് ചോദ്യം അതിനാൽ അവരുടെ മെറ്റീരിയൽ ബാലൻസ് കോഴ്സ് ഓർമ്മിക്കുന്നവരോ അല്ലെങ്കിൽ ഇത് ഇഷ്ടപ്പെടുന്നവരോ ഉടനടി ചോദ്യം ചോദിക്കും ടാങ്കിൽ നിറയുന്ന ജലത്തിന്റെ ഇൻപുട്ട് നിരക്ക് എന്താണ് ജലത്തിന്റെ ഇൻപുട്ട് നിരക്ക് നിങ്ങൾക്കറിയാമെങ്കിൽഇത് നിറയാൻ എടുക്കുന്ന സമയം നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ഇൻപുട്ട് നിരക്ക് സെക്കൻഡിൽ 10 കിലോഗ്രാം ആണെങ്കിൽ സമയം 12000 ആയിരിക്കും ക്ഷമിക്കണം 1200 സെക്കൻഡ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഇൻപുട്ട് നിരക്ക് 20 ആണെങ്കിൽ സമയം 600 സെക്കൻഡ് അല്ലെങ്കിൽ 10 മിനിറ്റ് ആയിരിക്കും ഇൻപുട്ട് നിരക്ക് സെക്കൻഡിൽ 50 കിലോഗ്രാം ആണെങ്കിൽ സമയം 240 സെക്കൻഡ് അല്ലെങ്കിൽ 4 മിനിറ്റ് ആയിരിക്കും ജല ഇൻപുട്ടിന്റെ നിരക്ക് നമുക്കറിയാമെങ്കിൽ സമയം മാസ്സ് അലാതെ മറ്റൊന്നുമല്ല മാസ്സിനെ നിരക്കിനാൽ വിഭജിക്കുകയല്ലാതെ മറ്റൊന്നുമല്ല അതാണ് ഇത് ഉദാഹരണത്തിന് 12000 കിലോഗ്രാം സെക്കൻഡിൽ 10 കിലോഗ്രാം നമുക്ക് 1200 സെക്കൻഡ് നൽകുന്നു അതായത് 20 മിനിറ്റും മറ്റും ടാങ്ക് നിറയുന്ന ഒരു സാധാരണ സമയം ഏകദേശം 10 മിനിറ്റാണ് അതിനാൽ കൂടുതൽ ചർച്ചയ്ക്കുള്ള ഇൻപുട്ട് നിരക്കായി ഇത് തിരഞ്ഞെടുക്കാം നമ്മൾ നിരക്കുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക ടാങ്കറിൽ ഒരു ദ്വാരം ഉണ്ടെന്ന് കരുതുക അത് സെക്കൻഡിൽ 5 കിലോഗ്രാം എന്ന തോതിൽ വെള്ളം ഒഴിക്കുന്നു ടാങ്ക് നിറയ്ക്കാൻ എത്ര സമയമെടുക്കും നമ്മുടെ കോഴ്സ് നമ്മൾ ഓർക്കുന്നുവെങ്കിൽ നെറ്റ് നിരക്ക് എനിക്കറിയാമെങ്കിൽ നമ്മൾ പറയും നമുക്ക് വളരെ എളുപ്പത്തിൽ സമയം കണ്ടെത്താൻ കഴിയും അതിനാൽ ഇവിടെയുള്ള നേട്ടമാണിത് നമ്മൾ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളെല്ലാം കണക്കാക്കുന്നത് എളുപ്പമാകും അതിലെ വോള്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ പ്രയാസമാണ് അതിനാൽ നമ്മൾ നിരക്ക് കണക്കിലെടുത്ത് പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് ഡൈനാമിക് സിസ്റ്റങ്ങൾ എഞ്ചിനീയറിംഗ് സിസ്റ്റങ്ങൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുമ്പോൾ നിരക്ക് ഒരു തരം സ്റ്റാൻഡേർഡ് പാരാമീറ്ററായി കണക്കാക്കുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അത് നോക്കും ഈ കേസിലെ മൊത്തം നിരക്ക് ഒരു 10 കിലോഗ്രാം വരുന്നു സെക്കൻഡിൽ 5 കിലോഗ്രാം പുറത്തേക്ക് പോകുന്നു സെക്കൻഡിൽ 10 കിലോഗ്രാം വരുന്നു ക്ഷമിക്കണം ഇത് സെക്കൻഡിൽ 20 കിലോഗ്രാം വരുന്നു സെക്കൻഡിൽ 5 കിലോഗ്രാം പുറത്തേക്ക് പോകുന്നു അതിനാൽ മൊത്തം നിരക്ക് സെക്കൻഡിൽ 15 കിലോഗ്രാം ആയിരിക്കും rnet rin - rout 20 - 5 15 Kg s 1 നെറ്റ് റേറ്റ് അറിഞ്ഞുകഴിഞ്ഞാൽ വോളിയം നെറ്റ് റേറ്റ് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് അതിൽ നിന്നും സമയം കണ്ടെത്താൻ കഴിയും അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ മാസ്സിനെ നെറ്റ് റേറ്റ് കൊണ്ട് ഹരിക്കുന്നു t V rnet 1200015 800 s or 13 3 min ഇത് m ആയിരിക്കണം 12000 കിലോഗ്രാം സെക്കൻഡിൽ 15 കിലോഗ്രാം അല്ലെങ്കിൽ 800 സെക്കൻഡ് അല്ലെങ്കിൽ 13 3 മിനിറ്റ് കൊണ്ട് ഹരിക്കുന്നു rnet rin rout 20 5 15 Kg s 1 ഇപ്പോൾ ഇത് സൃഷ്ടിപരമായ രീതിയിൽ സങ്കീർണ്ണമാക്കാം ചോർച്ചയ്ക്ക് പുറമേ ടാങ്കിനുള്ളിൽ തന്നെ സെക്കൻഡിൽ 1 കിലോഗ്രാം വെള്ളം ഉത്പാദിപ്പിക്കുന്ന ചില സംവിധാനങ്ങളുണ്ടെന്ന് കരുതുക ടാങ്കിനുള്ളിൽ വെള്ളം സെക്കൻഡിൽ 0 25 കിലോഗ്രാം വേഗതയിൽ ഉപയോഗിക്കുന്ന മറ്റ് ചില പ്രതികരണങ്ങൾ എല്ലാം ഒരേസമയം സംഭവിക്കുന്നു ഇതാണ് ഇവിടെ നിർണായക രേഖ അവയെല്ലാം ഒരേസമയം സംഭവിക്കുന്നു ഇവയെല്ലാം ഒരേസമയം സംഭവിക്കുകയാണെങ്കിൽ ടാങ്ക് നിറയ്ക്കാൻ എത്ര സമയമെടുക്കും നമ്മൾ ഇപ്പോൾ നിരക്കുകൾ ആയിട്ട് നന്നായി പൊരുത്തപെട്ടിരിക്കുന്നു അതിനാൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു മൊത്തം നിരക്ക് എന്താണ് എനിക്ക് നെറ്റ് റേറ്റ് അറിയാമെങ്കിൽ എനിക്ക് അത് കണ്ടെത്താൻ കഴിയും മൊത്തം നിരക്ക് നമ്മൾ എങ്ങനെ കണ്ടെത്തും ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ടിന്റെ നിരക്കും ഉൽപാദന നിരക്ക് മൈനസ് ഉപഭോഗനിരക്കും ആണ് നിരക്ക് ഇൻപുട്ടിന്റെ നിരക്ക് സെക്കൻഡിൽ 20 കിലോഗ്രാം ആണ് ഔട്ട്പുട്ടിന്റെ നിരക്ക് സെക്കൻഡിൽ 5 കിലോഗ്രാം ആണ് നമ്മൾ ഇതിനകം ഇതൊക്കെ കണ്ടു ഇപ്പോൾ ഇവിടെ ഉത്പാദന നിരക്ക് സെക്കൻഡിൽ 1 കിലോഗ്രാം എന്ന തോതിൽ വെള്ളം ഉത്പാദിപ്പിക്കപ്പെടുന്നു ഇത് പ്രതിപ്രവർത്തനത്തിലൂടെ സെക്കൻഡിൽ 0 25 കിലോഗ്രാം എന്ന തോതിൽ ഉപയോഗിക്കുന്നു അതിനാൽ മൊത്തം നിരക്ക് സെക്കൻഡിൽ 15 75 കിലോഗ്രാം ആയി മാറുന്നു rnet rin - rout rgen - rconsump 20 - 5 1 - 0 75 Kg s 1 അതിനാൽ സിസ്റ്റത്തിനകത്തോ ടാങ്കിനുള്ളിലോ വെള്ളം ശേഖരിക്കപ്പെടുന്ന നിരക്കാണിത് ടാങ്കിലെ സമയത്തിനനുസരിച്ച് ജലത്തിന്റെ മാസിന്റെ മാറ്റത്തിന്റെ നിരക്ക് അതിനാൽ അത് 12000 കിലോഗ്രാം ആയി വിഭജിക്കും ഇത് സെക്കൻഡിൽ 15 75 കിലോഗ്രാം ആണ് ഇത് 761 9 സെക്കൻഡ് അല്ലെങ്കിൽ 12 75 761 9 s or 12 7 min ഇപ്പോൾ നമ്മുടെ സമവാക്യത്തിന് ഞാൻ ഈ പശ്ചാത്തലം നൽകി ഇൻപുട്ടിന്റെ നിരക്ക് മൈനസ് ഔട്ട്പുട്ടിന്റെ നിരക്കും പ്ലസ് ഉത്പാദന നിരക്കും മൈനസ് ഉപഭോഗ നിരക്ക് ആകെയുള്ള നിരക്കാണ് കൂട്ടിവെക്കയുന്ന നിരക്ക് അത് നമ്മൾ ഒരു ഡെറിവേറ്റീവ് ആയി എഴുതുന്നു അതുകൊണ്ട് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ആകുന്നു rnetri rorg rcddt rnet rin rout rgen rconsump 20 5 1 0 75 Kg s 1 കോശങ്ങളുടെ ചൂട് വന്ധ്യംകരണ സമയത്ത് നമ്മൾ അണുവിമുക്തമാക്കുകയാണെന്ന് നമുക്കറിയാം മീഡിയം അടങ്ങിയ ഒരു സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടർ എന്ന് പറയാം അതിൽ ഇതിനകം തന്നെ ചില കോശങ്ങൾ വളരുന്നുണ്ട് ഇത് അണുവിമുക്തമാക്കിയിട്ടില്ല മാത്രമല്ല അണുവിമുക്തമാക്കുകയും അവിടെയുള്ള എല്ലാ കോശങ്ങളെയും നശിപ്പിക്കുകയും ചെയ്യും ആ പ്രക്രിയയ്ക്കിടയിൽ നമ്മുടെ സിസ്റ്റമായ ബയോ റിയാക്റ്റർ ചാറിൽ കോശങ്ങൾ നശിപ്പിക്കപ്പെടുന്നു മറ്റൊന്നും സംഭവിക്കുന്നില്ല ഇൻപുട്ട് ഇല്ല ഔട്ട്പുട്ട് ഇല്ല അതിനാൽ കോശങ്ങളിലെ ഇൻപുട്ടിന്റെ നിരക്ക് സിസ്റ്റത്തിലേക്കുള്ള കോശങ്ങളുടെ മാസ്സ് 0 ആണ് ri0 സിസ്റ്റത്തിൽ നിന്ന് കോശങ്ങളുടെ ഔട്ട്പുട്ട് കിട്ടുന്നില്ല കോശങ്ങളുടെ ഔട്ട്പുട്ടിന്റെ നിരക്ക് വീണ്ടും കോശങ്ങളുടെ മാസ്സ് അല്ലെങ്കിൽ സെല്ലുകളുടെ എണ്ണം 0 ആണ് ro0 സിസ്റ്റത്തിൽ കോശങ്ങളുടെ ജനറേഷൻ ഇല്ല അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അനുമാനിക്കാം അതിനാൽ കോശങ്ങളുടെ ഉത്പാദന നിരക്ക് 0 ആണ് rg0 അതിനാൽ r i മൈനസ് ro പ്ലസ് rg മൈനസ് rc ആണ് ഇത് മൈനസ് rc മൈനസ് rc എന്നിവ കോശങ്ങളുടെ ഉപഭോഗ നിരക്ക് rc അത് ddt ന് തുല്യമാണ് സിസ്റ്റത്തിൽ മാസിന്റെ കോശങ്ങൾ ശേഖരിക്കപ്പെടുന്ന നിരക്ക് rcddt ആദ്യ തത്ത്വങ്ങളിൽ നിന്ന് ഇത് പരിഗണിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇതാണ് ഉയർന്ന താപനിലയിൽ എത്തുന്നതിനാൽ കോശങ്ങളുടെ ഉപഭോഗം ഓർക്കുക ഇതാണ് നമ്മൾ സംസാരിക്കുന്ന ചൂട് അണുനശീകരണം അതിനാൽ മാസിന്റെ അടിസ്ഥാനത്തിൽ കോശങ്ങളുടെ ഉപഭോഗനിരക്കായ rc ആണ് rd വോളിയം അടിസ്ഥാനത്തിലായിരുന്നു അത് ഓർക്കുക ക്ഷമിക്കണം അത് സാന്ദ്രത അടിസ്ഥാനത്തിലായിരുന്നു എന്നത് വോളിയത്താൽ വിഭജിക്കപ്പെട്ട മാസ്സ് അലാതെ മറ്റൊന്നുമല്ല അതിനാൽ സാന്ദ്രതയിൽ നിന്ന് മാസ്സ് ലഭിക്കാൻ നമ്മൾ സാന്ദ്രതയെ വോളിയം കൊണ്ട് ഗുണിക്കേണ്ടതുണ്ട് അതിനാൽ സാന്ദ്രത അടിസ്ഥാനമാക്കിയുള്ള ഒരു നിരക്കിൽ നിന്ന് മാസ്സ് ഉള്ള ഒരു നിരക്ക് ലഭിക്കാൻ നമ്മൾ സാന്ദ്രത അടിസ്ഥാനമാക്കിയുള്ള നിരയെ വോളിയം കൊണ്ട് ഗുണിക്കേണ്ടതുണ്ട് rcrdV അതിനാൽ V യിലേക്കുള്ള ഈ rd ഇത് കോശങ്ങളുടെ ഉപഭോഗ നിരക്ക് അല്ലെങ്കിൽ ഒരു മാസ്സ് അടിസ്ഥാനത്തിൽ കോശങ്ങളുടെ നശീകരണ നിരക്ക് ഈ മൈനസ് നമ്മുടെ ബാലൻസ് സമവാക്യത്തിൽ നിന്നാണ് വരുന്നത് ബയോ റിയാക്ടറിനുള്ളിലെ കോശങ്ങളുടെ മാസ്സ് ശേഖരണ നിരക്ക് തുല്യമാകുമ്പോൾ അണുവിമുക്തമാക്കുന്നു V ലേക്ക് മൈനസ് rd m x ന്റെ ഡെറിവേറ്റീവി ന് തുല്യമാണ് rdVdmxdt ഇപ്പോൾ നമുക്ക് എല്ലാം ഒരു വലിയ മാസ്സ് അടിസ്ഥാനത്തിലാണ് അത് നല്ലതാണ് ഇപ്പോൾ സാന്ദ്രതയുടെ നിർവചനത്തിൽ നിന്ന് മാസ്സ് ഏകാഗ്രത ഗുണം വോളിയമല്ലാതെ മറ്റൊന്നുമല്ല massconcentration×volume അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മാസ്സിനെ വോളിയം കൊണ്ട് ഹരിച്ചാൽ സാന്ദ്രത ആണ് അതാണ് നിർവചനം അതിനാൽ നമുക്ക് ഇവിടെയുള്ള mx എന്നത് വോളിയത്തിലേക്ക് കോശങ്ങളുടെ സാന്ദ്രത xv ആണ് mxxvV ഈ mx നെ മാറ്റിസ്ഥാപിക്കാൻ നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മൈനസ് rd വിയിലേക്ക് mx ന് പകരം xv V ഉപയോഗിക്കാം അതിനാൽ ddt of x v into V ഈ സാഹചര്യത്തിൽ വോളിയം സ്ഥിരമായതിനാൽ ചാറു വോളിയം വോളിയം സിസ്റ്റത്തിന്റെ അത് ഒരു കോൺസ്റ്റന്റ് ആണ് നമുക്ക് ഡെറിവേറ്റീവിൽ നിന്ന് വോളിയം പുറത്തെടുക്കാൻ കഴിയും V x d യുടെ d dt rdVdxvVdtVdxvdt അങ്ങനെ നമുക്ക് ഇപ്പോൾ നമുക്ക് ഇവിടെ വോളിയം റദ്ദാക്കാൻ കഴിയും അതിനാൽ മൈനസ് rd എന്നത് മൈനസ് kdxv ന് തുല്യമാണ് അതാണ് നമ്മൾ മുമ്പ് കണ്ടത് ആദ്യ ഓർഡർ എക്സ്പ്രഷനായി നമ്മൾ rd യെ പ്രതിനിധീകരിച്ചു kdxv കോശങ്ങളുടെ നാശനിരക്ക് സ്ഥിരമായ കോശങ്ങളുടെ ഏകാഗ്രതയ്ക്ക് തുല്യമാണ് അത് ആദ്യ ഓർഡർ എക്സ്പ്രഷനാണ് അത് dxv dt ന് തുല്യമാണ് കാരണം നമ്മൾ ഇവിടെയുള്ള വോള്യങ്ങൾ റദ്ദാക്കി rd kdxvdxvdt ഇതാണ് ഇവിടെയുള്ള അവസാന പദപ്രയോഗം xv യുടെ ddt മൈനസ് kd തവണ അത് x v ന് തുല്യമാണ് dxvdt kdxv നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമായ ആദ്യ ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യമാണിത് ഈ ആദ്യ ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം നമ്മൾ പരിഹരിച്ചാൽ ln ഓർ നാച്ചുറൽ ലോഗ് xv നോട്ട് ബൈ xv ഈക്വല്സ് kd ടൈംസ് t ടൈം ln xv0xv kd ഇവിടെ അണുനശീകരണ പ്രക്രിയ ആരംഭിക്കുമ്പോൾ xv ശൂന്യമല്ല ഹീറ്റ് അണുനശീകരണം xv എന്നത് എപ്പോൾ വേണമെങ്കിലും കോശങ്ങളുടെ സാന്ദ്രതയാണ് അല്ലെങ്കിൽ നമുടെ വീക്ഷണകോണിൽ നിന്ന് ഒരു ഡിസൈൻ വീക്ഷണകോണിൽ നിന്ന് നോക്കാനുള്ള മാർഗ്ഗം പ്രക്രിയ ആരംഭിക്കുമ്പോൾ xv0 മുതൽ xv വരെ ആരംഭിക്കുന്ന xv ലേക്ക് താഴേക്ക് പോകാൻ പ്രാപ്തിയുള്ള കോശങ്ങളുടെ സാന്ദ്രതക് ആവശ്യമായ സമയമാണ് t അല്ലാതെ മറ്റൊന്നുമല്ല ഞാൻ സ്വാഭാവിക ലോഗിലേക്ക് പരിവർത്തനം ചെയ്യുന്നു ലോഗ് ബേസ് 10 പരിവർത്തന ഘടകം 2 303 ആണെന്ന് നമുക്കറിയാം അതിനാൽ സ്വാഭാവിക ലോഗ് xv നോട്ട് xv അടിസ്ഥാന 10 xv ലേക്ക് 2 303 ലോഗ് ആണ് കൂടാതെ kd ഇവിടെ ഡിനോമിനേറ്ററിലേക്ക് വരുന്നു അതിനാൽ xv യിൽ നിന്ന് xv യിൽ നിന്ന് പ്രാപ്യമായ കോശങ്ങളുടെ സാന്ദ്രത കുറയുന്നതിന് ആവശ്യമായ സമയം കാണുന്നതിനുളള സമവാക്യമാണ് 303 ഡിവൈഡഡ് ബൈ k d ലോഗ് റ്റു ദി ബേസ് 10 ഓഫ് xv നോട്ട് ബൈ xv 303kdxv0xv കോശങ്ങളുടെ സാന്ദ്രതയിൽ 10 മടങ്ങ് കുറയ്ക്കുന്നതിന് എടുത്ത സമയം ഇപ്പോൾ തുടക്കത്തിൽ ഇത് ഒരു നിശ്ചിത മൂല്യമായിരുന്നെങ്കിൽ അത് തുടക്കത്തിൽ ഉണ്ടായിരുന്നതിന്റെ പത്തിലൊന്നായി കുറഞ്ഞു ഏത് താപനിലയിലും കോശങ്ങളുടെ സാന്ദ്രത 10 മടങ്ങ് കുറയ്ക്കുന്നത് താപ അണുനശീകരണത്തിന്റെ പ്രധാന പാരാമീറ്ററാണ് കൂടുതൽ വിവരങ്ങൾ ഇല്ലാതെ അണുനശീകരണ പ്രക്രിയ രൂപകൽപ്പന ചെയ്യുന്നതിനും അണുനശീകരണ ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും മറ്റും തന്നെ മറ്റെവിടെയെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നു നമ്മൾ പ്രവർത്തനക്ഷമമായ കോശങ്ങളുടെ സാന്ദ്രതയിൽ 10 മടങ്ങ് കുറയ്ക്കുന്നതിന് എടുത്ത സമയത്തെ ഡെസിമൽ റിഡക്ഷൻ ടൈം എന്ന് വിളിക്കുന്നു ഇത് സാധാരണയായി മൂലധന D ആയി പ്രകടിപ്പിക്കുന്നു 10 ഫോൾഡ് ഫുഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് തുടക്കത്തിലുള്ള പ്രവർത്തനക്ഷമമായ കോശ സാന്ദ്രതയെ t ടൈമിൽ ഉള്ള കോശ സാന്ദ്രത കൊണ്ട് വിഭജിക്കുമ്പോൾ കിട്ടുന്നതാണ് 303kdxv0xv ഇത് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത എക്സ്പ്രഷനിൽ പകരം വയ്ക്കുകയാണെങ്കിൽ ഈ സമവാക്യം സാന്ദ്രത xv0 നിന്നും xv ലേക്ക് പോകാൻ എടുത്ത സമയം അതായത് ഡെസിമൽ റിഡക്ഷൻ ടൈംനു നമുക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടുന്നു നമുക്ക് ഇഷ്ടമുള്ള ഒരു വെരിയബിലിന്റെ ഉപയോഗിച്ച് 303 നെ കെഡി ലോഗ് ബേസ് 10 കൊണ്ട് ഹരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം log a ലേക്ക് ബേസ് a 1 ആണ് അതിനാൽ ഇത് kd കൊണ്ട് 2 303 യെ ഹരിച്ചാൽ കിട്ടുന്നതാണ് 303kd മുകളിലുള്ള വിശകലനം ഒരൊറ്റ കോശങ്ങളുടെ സസ്പെൻഷന് മാത്രമേ ബാധകമാകൂ എന്ന് ഓർക്കുക ഏത് സമയത്തും നശീകരണത്തിന്റെ നിരക്ക് പ്രായോഗിക കോശങ്ങളുടെ സാന്ദ്രതക്ക് നേരിട്ട് ആനുപാതികമാണ് ഓർക്കുക ഈ നിരീക്ഷണം നമ്മൾ ഗണിതശാസ്ത്രപരമായി പ്രതിനിധീകരിക്കുന്നത് നോക്കി ഫസ്റ്റ് ഓർഡർ ഡിക്രീസ് ഇതിനെ പ്രതിനിധീകരിക്കുന്നതിനുള്ള ഒരു നല്ല മാർഗമാണെന്ന് നമ്മൾ പറഞ്ഞു അതായത് ഉയർന്ന താപനിലയിൽ കോശങ്ങളുടെ സാന്ദ്രത കുറയുന്നതിന്റെ നിരക്ക് എപ്പോൾ വേണമെങ്കിലും കോശങ്ങളുടെ സാന്ദ്രതയ്ക്ക് ആനുപാതികമാണ് മുൻകാല ഗണിതശാസ്ത്രപരമായ ആവിഷ്കാരത്തിന് കാരണമായത് അതാണ് ഗണിതശാസ്ത്രപരമായ സമവാക്യം എല്ലായ്പ്പോഴും കാര്യങ്ങളെ സാമാന്യവൽക്കരിക്കുന്നു നേരത്തെ കണ്ടിട്ടില്ലാത്ത സാഹചര്യങ്ങളിൽ ഇത് വളരെയധികം ഉപയോഗപ്രദമാക്കുന്നു അതുവഴി ഈ സാഹചര്യത്തിൽ അണുനശീകരണ പ്രക്രിയകളുടെ രൂപകൽപ്പനയിലേക്ക് നയിക്കുന്നു സിംഗിൾ കോശങ്ങളുടെ സസ്പെന്ഷനു വേണ്ടിയായിരുന്നു അത് രേഖീയമല്ലാത്ത മറ്റ് നശീകരണ സ്വഭാവങ്ങളുണ്ട് നമുക്ക് ഇത് ആദ്യം ഊഹിക്കാൻ കഴിയുമോ എന്ന് നോക്കാം ഇത് വീണ്ടും ഒരു പ്ലോട്ട് ആണ് ശതമാന പ്രാപ്യമായ കോശങ്ങളുടെ ഏകാഗ്രത 100 10 1 0 1 അതിനാൽ ഒരു ലോഗ് സ്കെയിലിൽ സമയത്തിന് എതിരായി അത് കണക്കാക്കുന്നു ഇതുപോലുള്ള ഒരു കർവ് എന്ത് നൽകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ നേരത്തെ ഇത് രേഖീയമായിരുന്നു ഒരു രേഖീയ കുറവ് ഈ സാഹചര്യത്തിൽ കുറയുന്നത് ഇതുപോലെയാണ് ഇത് കുറച്ചുകാലത്തേക്ക് വളരെയധികം കുറയുന്നില്ല തുടർന്ന് അത് കുറയാൻ തുടങ്ങുന്നു ഏത് തരത്തിലുള്ള ഉള്ളടക്കമോ പ്രവർത്തനക്ഷമമായ കോശങ്ങളോ ഏത് രൂപത്തിലുള്ള പ്രവർത്തനക്ഷമമായ കോശങ്ങളോ ഇതിന് കാരണമാകുമെന്ന് നമുക്ക് ഊഹിക്കാമോ കട്ടപിടിച്ച കോശങ്ങൾ എന്നതാണ് ഉത്തരം ഇപ്പോൾ കോശങ്ങൾ പരസ്പരം പറ്റിപ്പിടിക്കുന്നു പിന്നെ കട്ടയുടെ പുറം ഭാഗങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കട്ടയുടെ ആന്തരിക ഭാഗങ്ങൾ നശിപ്പിക്കാൻ കുറച്ച് സമയമെടുക്കും വൈവിധ്യത്തിനായി മാത്രം നമുക്ക് രേഖിയമല്ലാത്ത സ്വഭാവം കാണാം ഇത് മറ്റൊരു രേഖീയമല്ലാത്ത പെരുമാറ്റമാണ് നമുക്ക് കാണാനാകുന്നതുപോലെ ഇത് രണ്ട് വരികളായി പ്രതിനിധീകരിക്കുന്നു 100 മുതൽ 0 2 അല്ലെങ്കിൽ അതുപോലെയുള്ള ഒന്ന് പറയാം ഇത് ഒരു വരിയാണ് അതിനുശേഷം ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റൊരു ചരിവുള്ള മറ്റൊരു വരിയുണ്ട് അത്തരമൊരു പെരുമാറ്റം എപ്പോൾ കാണുമെന്ന് നമ്മൾ കരുതുന്നു സിംഗിൾ കോശങ്ങളുടെ സസ്പെൻഷനിൽ ഇത് സംഭവിക്കുന്നുവെന്ന് നമുക്കറിയാം വ്യത്യസ്ത ചരിവുകളുള്ള 2 വരികളാണുള്ളത് അതിനാൽ നമുക്ക് 2 വ്യത്യസ്ത കോശ തരങ്ങളുടെ മിശ്രിതമുള്ളപ്പോൾ ഇത് ഉണ്ടാകാം തരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഉയർന്ന താപനിലയോടുള്ള പ്രതികരണത്തിൽ നിന്ന് ഉണ്ടാകുന്ന തരങ്ങളിലെ വ്യത്യാസം ഇത് കുറയുന്നു ഇത്തരത്തിലുള്ള കോശങ്ങൾ വേഗത്തിൽ കുറയുന്നു ഇത്തരത്തിലുള്ള കോശങ്ങൾ സാവധാനത്തിൽ കുറയുന്നു പ്രവർത്തനക്ഷമമായ കോശങ്ങളുടെ സാന്ദ്രതക്കും സമയത്തിനും എതിരായി നമുക്ക് രണ്ട് വ്യത്യസ്ത കോശങ്ങളുടെ തരങ്ങളുടെ സമ്മിശ്രം ഉണ്ടാകുന്ന ഒരു തരം പെരുമാറ്റമാണിത് ഇപ്പോൾ ഞാൻ ആദ്യത്തെ പ്രാക്ടീസ് പ്രശ്നം അവതരിപ്പിക്കാൻ പോകുന്നു ഇതാണ് ഞാൻ ഇതിനെ 1 1 എന്ന് വിളിക്കട്ടെ കാരണം ഇത് മൊഡ്യൂൾ 1 ആണ് അതാണ് ആദ്യ നമ്പർ സൂചിപ്പിക്കുന്നത് ഇത് മൊഡ്യൂൾ 1 ന്റെ പ്രശ്നം 1 ആണ് അതിനാൽ 1 ഞാൻ ഈ പ്രശ്നം നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ കഴിയും നിങ്ങൾ ഈ പ്രശ്നം സമർപ്പിക്കേണ്ടതില്ല ഇത് ഈ mooc വിലയിരുത്തുന്നതിനായി കണക്കാക്കില്ല എന്നിരുന്നാലും പ്രശ്ന പരിഹാരത്തിനുള്ള ഈ കഴിവുകൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് അടുത്ത പ്രഭാഷണം ആരംഭിക്കുമ്പോൾ ഞാൻ ആദ്യം ഇത് നിങ്ങൾക്കായി ചെയ്തു തരും ഇവിടെ പ്രാക്ടീസ് പ്രശ്നം വായിക്കുന്നു ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ബയോ റിയാക്റ്റർ അണുവിമുക്തമാക്കേണ്ടതുണ്ട് ബയോ റിയാക്ടർ സമാന താപ പ്രതികരണ സ്വഭാവമുള്ള ഒറ്റ കോശങ്ങൾ ഉൾക്കൊള്ളുന്നു അതിനാൽ അത് ഒരൊറ്റ വരിയായി മാറുന്നു 70 ഡിഗ്രി സെൽഷ്യസിൽ സെൽ സാന്ദ്രത അതിന്റെ യഥാർത്ഥ മൂല്യത്തിന്റെ 20 ശതമാനമായി കുറയ്ക്കാൻ 5 മിനിറ്റ് എടുക്കും a ദശാംശ റിഡക്ഷൻ സമയം നിർണ്ണയിക്കുക ഓർക്കുക ഇത് ഒരു പ്രധാന പാരാമീറ്ററാണെന്ന് നമ്മൾ പറഞ്ഞു അതിനാൽ ആദ്യം അത് നിർണ്ണയിക്കുക ദശാംശ റിഡക്ഷൻ സമയം നിർണ്ണയിക്കുക b ഒരേ സാഹചര്യങ്ങളിൽ കോശങ്ങളുടെ സാന്ദ്രത അതിന്റെ യഥാർത്ഥ മൂല്യത്തിന്റെ 0 1 ശതമാനമായി കുറയ്ക്കാൻ എത്ര സമയമെടുക്കും ഇത് നമുക്ക് ഒരു പ്രശ്നമാണ് പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അടുത്ത പ്രഭാഷണം ആരംഭിക്കുമ്പോൾ പരിഹാരത്തിന് പിന്നിൽ ചില ചിന്തകളെങ്കിലും കാണിക്കും അതിനാൽ ആമുഖത്തിൽ നമ്മൾ ചെയ്തത് ഇതാണ് ഈ പ്രഭാഷണം ആരംഭിക്കുമ്പോൾ നമ്മൾ ആമുഖത്തിന്റെ മുൻ ഭാഗങ്ങളിലൂടെ കടന്നുപോയി എന്ന് ഞാൻ ഊഹിക്കുന്നു അടിസ്ഥാനപരമായി ബയോപ്രൊസസ്സുകളുടെ ചില ഉദാഹരണങ്ങളും കൃത്യമായി ഒരു ബയോപ്രൊസസ് എന്താണെന്നും ബയോപ്രൊസക്ടറിന്റെ ഹൃദയഭാഗത്ത് ബയോ റിയാക്ടർ ഉണ്ടെന്നും എല്ലാം വ്യത്യസ്ത തരം ബയോ റിയാക്ടറുകൾ സാധാരണയായി ഉപയോഗിക്കുന്നു സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടർ എയർ ലിഫ്റ്റ് ബയോ റിയാക്ടർ സോളിഡ് സ്റ്റേറ്റ് ബയോ റിയാക്ടർ സിംഗിൾ യൂസ് ബയോ റിയാക്ടറുകൾ ഫോട്ടോബയോ റിയാക്ടറുകൾ പായ്ക്ക്ഡ് ബെഡ് ബയോ റിയാക്ടറുകൾ ഫ്ലൂയിഡിസെഡ് ബെഡ് ബയോ റിയാക്ടറുകൾ തുടങ്ങിയവ നമ്മൾ സാധാരണയായി കണ്ട ചില ബയോ റിയാക്ടറുകൾ ആണ് നിരവധി തരം ഉണ്ട് ബയോ റിയാക്റ്റർ മറ്റൊന്നുമല്ല ബയോ റിയാക്ഷനുകൾ നടക്കുന്ന ഒരു ഉപകരണ നിയന്ത്രിത പാത്രമാണ് സാധാരണയായി കോശങ്ങൾ മദ്ധ്യസ്ഥമാക്കുന്നു അല്ലെങ്കിൽ അത് പ്രതിപ്രവർത്തനത്തിന് മധ്യസ്ഥത വഹിക്കുന്ന ഒരു എൻസൈമാണ് അതാണ് ഒരു ബയോ റിയാക്ടർ ഏതൊരു ബയോ റിയാക്ടറെയും വ്യത്യസ്ത മോഡുകളിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു ചില ബയോ റിയാക്ടറുകൾ എല്ലാ 3 അടിസ്ഥാന മോഡുകളിലും പ്രവർത്തിക്കുന്നു ചിലത് പ്രവർത്തിക്കുന്നില്ല ഉദാഹരണത്തിന് ഒരു സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടർ ഒരു ബാച്ച് മോഡിലും തുടർച്ചയായ മോഡിലും ഒരു ഫെഡ് ബാച്ച് മോഡിലും പ്രവർത്തിപ്പിക്കാൻ കഴിയും അതേസമയം ഒരു പാക്ക്ഡ് ബെഡ് ഒരു ബാച്ച് മോഡിൽ മാത്രം പ്രവർത്തിക്കുന്നത് അൽപ്പം ബുദ്ധിമുട്ടാണ് നമുക്ക് അത് കഴിയും പക്ഷേ ഇതിന് വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ട് മറിച്ച് ഇത് സാധാരണയായി ഒരു ബാച്ച് മോഡിൽ പ്രവർത്തിക്കില്ല ഇത് തുടർച്ചയായ മോഡിലാണ് പ്രവർത്തിക്കുന്നത് പിന്നെ വൃത്തിയുള്ള സ്ലേറ്റിന്റെ ആവശ്യകത യും ഉണ്ട് അതായത് നമ്മുടെ ജീവികൾ മാത്രം വളരുകയും താൽപ്പര്യമുള്ള ഉൽപന്നം ഉത്പാദിപ്പിക്കുകയും ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ സാധാരണയുള്ള മറ്റ് എല്ലാ ജീവജാലങ്ങളെയും നാം ഒഴിവാക്കണം ജീവജാലങ്ങൾ എല്ലായ്പ്പോഴും നമുക്ക് ചുറ്റുമുള്ള വായുവിൽ ഉണ്ടെന്നും അന്തരീക്ഷത്തിലേക്ക് തുറന്നിരിക്കുന്ന ബയോ റിയാക്ടർ ചാറിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് അവയെ തടയുന്നില്ലെന്നും നമ്മൾ പറഞ്ഞു അതിനാൽ തുടക്കത്തിൽ അവിടെയുള്ള എല്ലാ കോശങ്ങളെയും നാം നശിപ്പിക്കേണ്ടത് ഉണ്ട് നശീകരണത്തിന്റെ പ്രധാന രീതികളിൽ താപ നശീകരണം ഉൾപ്പെടുന്നു കോശങ്ങളെ നശിപ്പിക്കാൻ ഉയർന്ന താപനില ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമായ ജീവികളോ ദ്രാവകങ്ങളോ ഉപയോഗിക്കാം ഈ ജീവികളെയും കോശങ്ങളുടെ സംസ്കാരങ്ങളെയും മറ്റും കൈകാര്യം ചെയ്യുമ്പോൾ കൈകളിലെ കോശങ്ങളെ നശിപ്പിക്കാൻ 70 ശതമാനം എത്തനോൾ ലായനി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഫോർമാലിൻ നീരാവി ഫോർമാലിൻ ലായനിയിൽ നിന്നുള്ള ഫോർമാൽഡിഹൈഡ് നീരാവി ഒരു ലാബ് പോലുള്ള സ്ഥലത്ത് ജീവികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു തുടർന്ന് നമുക്ക് ഗാമാ കിരണങ്ങളും മറ്റും ഉപയോഗിക്കാം അൾട്രാവയലറ്റ് രശ്മികൾ ഗാമാ കിരണങ്ങൾ പ്രത്യേകിച്ചും നമ്മൾ അണുവിമുക്തമാക്കുകയാണെങ്കിൽ സിറിഞ്ചുകളും അതുപോലുള്ള കാര്യങ്ങളും നമുക്ക് പറയാം അത് ഉയർന്ന താപനിലയിൽ തുറന്നുകാട്ടാൻ കഴിയില്ല അവ പ്ലാസ്റ്റിക്കുകളാൽ നിർമ്മിച്ചവയാണ് അവ ഉയർന്ന താപനിലയിൽ എത്താൻ കഴിയില്ല അതിനാൽ നശീകരണത്തിന്റെ 3 രീതികൾ താപ അണുനശീകരണവും അതിന്റെ കുറച്ച് വിശദാംശങ്ങളും നോക്കാമെന്ന് നമ്മൾ പറഞ്ഞു ഏതൊരു എഞ്ചിനീയറിംഗ് സിസ്റ്റം വിശകലനത്തിലും ഡൈനാമിക് സിസ്റ്റം വിശകലനത്തിലും അടിസ്ഥാന പാരാമീറ്ററായി നിരക്ക് എന്ന ആശയത്തെക്കുറിച്ച് വ്യക്തമായിരിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ വീണ്ടും പറഞ്ഞു നിരക്ക് തന്നെ പ്രധാനമാണ് നമ്മൾ നിരക്ക് അളക്കുന്ന രീതി വളരെ വ്യത്യസ്തമായിരിക്കും ഉദാഹരണത്തിന് നമുക്ക് വേഗതയുണ്ട് അത് നിരക്കിന് തുല്യമാണ് കൂടാതെ ശരാശരി വേഗത നമ്മൾ യാത്ര ചെയ്ത ദൂരവും സമയവും അനുസരിച്ചു അളക്കാനും നമുക്ക് കഴിയും പക്ഷേ എഞ്ചിനീയറിംഗ് സിസ്റ്റങ്ങളുടെ രൂപകൽപ്പന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്ക് താൽപ്പര്യമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് വേഗത ഒരു തരത്തിലുള്ള കേന്ദ്രമാണ് ഈ സാഹചര്യത്തിൽ ബയോളജിക്കൽ എഞ്ചിനീയറിംഗ് സിസ്റ്റങ്ങളും എന്നിട്ട് നിരക്ക് ഉപയോഗിച്ച് ഉയർന്ന താപനിലയിൽ കോശങ്ങളെ നശിപ്പിക്കുന്നതിന്റെ നിരക്ക് ഒരു പ്രത്യേക സമയത്ത് അല്ലെങ്കിൽ ആദ്യത്തെ ഓർഡർ എക്സ്പ്രഷനിലെ കോശങ്ങളുടെ സാന്ദ്രതയ്ക്ക് ആനുപാതികമായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു ഒരു സാധാരണ പാരാമീറ്ററായ ഡെസിമൽ റിഡക്ഷൻ റേറ്റിന്റെ നിർവചനത്തിലേക്ക് നയിച്ചത് നമ്മൾ കണ്ടു അതിനുമുമ്പുള്ള കൂടുതൽ പൊതുവായ ഒരു പദപ്രയോഗം അത് സമയം അതിൽ നിന്ന് പോകാൻ എടുക്കുന്ന സമയം എന്നിവ നൽകുന്നു നമുക്ക് xv0 ന്റെ പ്രാരംഭ സാന്ദ്രത ഒരു പ്രതേക സമയത്തെ t പ്രാരംഭ പ്രവർത്തനക്ഷമമായ കോശങ്ങളുടെ സാന്ദ്രത xv ആയി എടുത്തു ഈ പരിശീലന പ്രശ്നം നമ്മൾ ഇവിടെ നോക്കി അതിനുമുമ്പ് ഈ രേഖീയ നശീകരണം ഒരുതരം പെരുമാറ്റം മാത്രമാണെന്ന് നമ്മൾ കണ്ടു കട്ടിയുള്ള കോശങ്ങൾ ഉള്ളപ്പോൾ ഒരു വക്രവും വ്യത്യസ്ത ചരിവുകളുള്ള 2 നേർരേഖകളുടെ സംയോജനവും പോലുള്ള മറ്റ് തരത്തിലുള്ള നശീകരണങ്ങൾ നമുക്ക് ഉണ്ടാകാം നമുക്ക് താപപരമായി വ്യത്യസ്ത ജീവികളുടെ ഒരു മിശ്രിതം ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈ പ്രാക്ടീസ് പ്രശ്നത്തിൽ നോക്കി ഇത് പരിഹരിക്കുന്നതിന് കുറച്ച് സമയം ചെലവഴിക്കാൻ നമ്മൾ ആഗ്രഹിച്ചേക്കാം എഞ്ചിനീയർമാർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണിവ ഈ കഴിവുകൾ നേടുന്നത് നല്ലതായിരിക്കും അടുത്തതായി കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ഈ പ്രശ്നം പരിഹരിച്ച് മൊഡ്യൂൾ 2 ആരംഭിക്കും അടുത്ത പ്രഭാഷണത്തിൽ കാണാം